എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു കാലാവസ്ഥാ വ്യതിയാന അനുകൂലനം ദുരന്തസാധ്യത കുറയ്ക്കൽ ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം കാണുന്നു മിക്ക ശാസ്ത്രസാഹിത്യങ്ങളും പറയുന്നത് ഇവ രണ്ടും പരസ്പരബന്ധിതമാണെന്ന് കാരണം ദുരന്തങ്ങൾ അവ പലപ്പോഴും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം അതിൽ ഒരു ദീർഘകാല സംവിധാനം ഉണ്ട് സമീപകാല പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കാണുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടും അല്ലാതെയും ദുരന്തസാധ്യതയുമായി ബന്ധപ്പെട്ടതാണെന്ന് സമീപകാലത്തുണ്ടായ ആശങ്കകൾ പോലുള്ള ദീർഘകാല സംഭവങ്ങളിൽ നിന്ന് ഇതിന്റെ സ്വാധീനം കൂടുതലാണ് അതിനാൽ ചർച്ച എങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് നോക്കാം 2015 ലെ CRED റിപ്പോർട്ടിൽ നിന്നും പറയുമ്പോൾ ഇഎം ഡാറ്റ് ൽ നിന്നും ലഭിക്കുന്ന മാപ്പിൽ 2000 ന് മുമ്പ് പ്രതിവർഷം 240 കാലാവസ്ഥാ സംബന്ധമായ ദുരന്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിവർഷം 341 മായി താരതമ്യപ്പെടുത്തുമ്പോൾ 44 വർദ്ധനവുണ്ടാകും ഇവിടെ പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കൂടുതലും ചൈനയിൽ ആണെന്ന് കാണാം ചൈന ഇന്ത്യ മെക്സിക്കോ എന്നിവ കൂടാതെ റഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ഒരു ഭാഗവും കണ്ടെത്താൻ കഴിയുമെന്ന് കാണാം കനേഡിയൻ വഷത്തിന്റെ വടക്കൻ ഭാഗവും അതിനാൽ ഇവയാണ് ദുരന്തങ്ങളുടെ എണ്ണവും അവ എങ്ങനെയാണ് വളരെയധികം സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ദുരന്തങ്ങളുടെ വർഗ്ഗീകരണം നോക്കിയാൽ ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി വെറും ഒരു ജിയോഫിസിക്കൽ ദുരന്തം അല്ലെങ്കിൽ ജിയോഫിസിക്കൽ വശങ്ങൾ കൂടുതൽ ബന്ധപ്പെട്ട മണ്ണിടിച്ചിൽ ഏറ്റവും കൂടുതൽ ആകുന്നു മറ്റുള്ളവ അവ വളരെ കുറവാണ് എന്നാൽ ഇവിടെ ഇവ മിക്കവാറും കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത് ജലശാസ്ത്രപരമോ കാലാവസ്ഥാ വശമോ ആണെങ്കിൽ കാലാവസ്ഥാ പ്രേരണ ഇവിടെയാണ് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉയർന്ന തോതിൽ ഉണ്ടെന്ന് വിവിധ പഠനങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തസാധ്യതയും സമന്വയിപ്പിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം നാം എങ്ങനെ കൈകോർത്ത് പ്രവർത്തിക്കണം അവിടെയാണ് പല അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ഇവിടെ നിന്നുമാണ് ദുരന്തസാധ്യതയും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ യുക്തിസഹമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അതുപോലെ എസ് എസ് ആർ ഈ എക്സ് റിപ്പോർട്ടിന്റെ ആശയപരമായ സമീപനം ഇവിടെ ദുരന്തസാധ്യത കേന്ദ്രത്തിൽ ഇടുന്നതിനെക്കുറിച്ചും സെറ്റിൽമെന്റുകൾ എങ്ങനെയാണ് തുറന്നുകാട്ടപ്പെടുന്നതെന്നും അപകടസാധ്യത ഘടകങ്ങളെക്കുറിച്ചും ദീർഘകാല കാലാവസ്ഥയും SREX പറയുന്നു കാലാവസ്ഥ സംഭവങ്ങൾ ഈ സെറ്റിൽമെന്റുകളെ ദുർബലമായ അവസ്ഥയിലാക്കുന്നു അവ എങ്ങനെയാണ് തുറന്നുകാട്ടപ്പെടുന്നത് കൂടാതെ ഒരു വശത്ത് ഹരിതഗൃഹ വാതക ഉദ്വമനം നിരന്തരമായ ആശങ്കകളിലാണ് ഇത് യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി വ്യതിയാനത്തിനും കാരണമാകുന്നു അതിനാൽ ഇത് ദുരന്തസാധ്യതയ്ക്ക് വിധേയമാണ് ഇവിടെയാണ് ദുരന്തവും വികാസവും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും ഫ്രെഡറിക് കോന്നിയിൽ നിന്ന് നിങ്ങൾക്കറിയാം ദുരന്തങ്ങളും വികസനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയാണ് വികസനം അത് ദുരന്ത നിവാരണ മാനേജ്മെന്റും കാലാവസ്ഥാ വ്യതിയാന അഡാപ്റ്റേഷനും അവ എങ്ങനെ യഥാർത്ഥത്തിൽ ദുരന്തസാധ്യതയിലേക്ക് സംഭാവന ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം സിസിഎ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതാണ് ഇവിടെ പ്രധാന കാര്യം സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന നിർണായക ഘട്ടങ്ങളിലൊന്നാണ് ദുരന്തസാധ്യത കുറയ്ക്കൽ അതിനാൽ ഈ രണ്ട് ഘടകങ്ങളും സമന്വയിപ്പിക്കേണ്ടതിന്റെ പ്രധാന സൂചനയാണിത് ദുരന്ത സാധ്യതകൾ വിശകലനം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള സങ്കൽപ്പവും പ്രയോഗവും ഉള്ളപ്പോൾ ദുരന്തസാധ്യത കുറയ്ക്കൽ അത് എങ്ങനെ സങ്കൽപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം അപകടസാധ്യത വിലയിരുത്തുന്നതിൽ ശാസ്ത്രീയ അറിവും സംഭാവന ചെയ്യുന്ന അപകടസാധ്യത വിലയിരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആദ്യ ഘട്ടം പ്രാദേശിക അറിവും അപകടസാധ്യത മനസ്സിലാക്കുന്നതിൽ സംഭാവന ചെയ്യുന്നു അതേസമയം ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉള്ളവരും പുറത്തുള്ളവരും അവർ പരസ്പരം ഇടപഴകുന്നു അതിനാൽ അവിടെയാണ് എൻജിഒകൾ സർക്കാരുകൾ ശാസ്ത്ര സമൂഹം നയരൂപകർത്താക്കൾ ഇരകൾ നിങ്ങൾക്കറിയാവുന്ന ഗുണഭോക്താക്കൾ അവരാണ് ആണ് ഉള്ളിൽ ഉള്ളവർ കമ്മ്യൂണിറ്റികളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളും വീണ്ടും പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ താഴേത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും മേലെ തട്ടിലുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ഇന്റർഫേസ്

അതിനാൽ ബീഗം

അതേസമയം ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ നാല് വ്യത്യസ്ത ഘട്ടങ്ങളാണ് പിന്തുടരുന്നത് ഇത് ലഘൂകരണം തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുക്കൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ പ്രതിരോധം ലഘൂകരണം തയ്യാറെടുപ്പ് പ്രതികരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു മാനേജുമെന്റ് കാഴ്ചപ്പാട് ചേർത്തുകൊണ്ട് ഈ ഡിആർഎം ഡിആർആറിനപ്പുറത്തേക്ക് പോകുന്നു വ്യത്യസ്ത വിദഗ്ധരെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദാഹരണത്തിന് ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ദേശീയ കർമപദ്ധതി ഉണ്ട് അത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി സമിതിയിൽ നിന്നുള്ളതാണ് സൌരോർജ്ജ ദൌത്യം മെച്ചപ്പെട്ട ഊർജ്ജ കാര്യക്ഷമത സുസ്ഥിര ആവാസ വ്യവസ്ഥ ജല ദൌത്യം ഹിമാലയൻ ആവാസവ്യവസ്ഥയെ നിലനിർത്തുന്നതിനുള്ള ദേശീയ ദൌത്യം ഹരിത ഇന്ത്യയെക്കുറിച്ചുള്ള ദേശീയ ദൌത്യം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ എട്ട് ദേശീയ ദൌത്യങ്ങളെക്കുറിച്ച് ഇന്ത്യാ ഗവൺമെന്റ് വിവിധ ദേശീയ ദൌത്യങ്ങൾ സ്ഥാപിച്ചു സുസ്ഥിര കൃഷിയും കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള തന്ത്രപരമായ അറിവും അതിനാൽ ഇവ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പരിഹരിക്കുന്നതിനും അതിൻറെ ഹരിത വശങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇന്ത്യാ ഗവൺമെന്റ് സ്ഥാപിച്ച വ്യത്യസ്ത ദൌത്യങ്ങളാണ് വാസ്തവത്തിൽ നിലവിലുള്ള കാലാവസ്ഥാ വ്യതിയാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്ന പ്രവർത്തനത്തിനുള്ള ഹ്യോഗോ ചട്ടക്കൂട്

ആശയപരമായി മാത്രമല്ല പ്രാക്ടീസ് കണക്കിലെടുക്കുമ്പോൾ പ്രാദേശിക തലം ഉപ ദേശീയ തലം ദേശീയ അന്തർദേശീയ തലം ഡിആർആറിനെയും സിസിഎയെയും പ്രവർത്തനപരമായി ബന്ധിപ്പിക്കാനും UNISDR ശുപാർശ ചെയ്യുന്നു ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് നമ്മൾ അവഗണിക്കുകയാണ് കാരണം താഴേത്തട്ടിലുള്ള സാഹചര്യങ്ങളുള്ളതിനാൽ നമുക്ക് അവരുമായി എങ്ങനെ ആശയവിനിമയം നടത്താം എങ്ങനെ വർദ്ധിപ്പിക്കാം ഈ ദാരിദ്ര്യത്തെ എങ്ങനെ പരിഹരിക്കാനാകും പലപ്പോഴും ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകൾ ഈ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങളിൽ ആരാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഈ എട്ട് ദൌത്യങ്ങളെക്കുറിച്ച് നാം പരാമർശിച്ചു എന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ഓരോ ദൌത്യത്തിനും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ഓരോ ദൌത്യത്തിനും അവരുടേതായ പ്രവർത്തന പദ്ധതികളുണ്ട് ചില കാര്യങ്ങൾ കൈമാറാൻ ഓരോ ദൌത്യവും സജ്ജമാക്കിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ അവയെല്ലാം ആവാസവ്യവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതി സെൻസിറ്റീവ് ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും ഈ വ്യത്യസ്ത ദൌത്യങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവ പരസ്പരം എങ്ങനെ ഏകോപിപ്പിക്കുന്നുവെന്നും പരസ്പരം എങ്ങനെ സഹകരിക്കുന്നുവെന്നും സംസാരിക്കുന്നു ഇത് നമ്മൾ മനസിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ദുരന്തസാധ്യത കുറയ്ക്കുന്നതിൽ വളരെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം അവരുടെ ഓരോ ദൌത്യവും ഹരിത ഉദ്വമനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാൽ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള കഴിവ് അവയ്ക്കുള്ളിലെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നായി എങ്ങനെ കാണാനാകും അതിനാൽ ഈ പ്രത്യേക വശം ഇതുവരെ നൽകിയിട്ടില്ല കൂടുതൽ ചർച്ചയിൽ ഏർപ്പെടുന്നതിനുമുമ്പ് ഡിആർആറും സിസിഎയും സംയോജിപ്പിക്കുന്നതിനുള്ള പ്രധാന വ്യത്യാസങ്ങളും വെല്ലുവിളികളും എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഒന്ന് ജോൺ ബെർക്ക്മാൻ മറ്റ് പല രചയിതാക്കളും ഇവയെല്ലാം അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളും സമാനതകളും പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അവ എങ്ങനെയാണെന്നത് നിങ്ങൾക്കറിയാം ഒന്ന് സ്കെയിലുകളാണ് കാരണം അവ രണ്ടും വ്യത്യസ്ത സ്കെയിലുകളെക്കുറിച്ച് സംസാരിക്കുന്നു കൂടുതൽ ദൈർഘ്യമേറിയതും താൽക്കാലികവും വലുതുമായ സ്പേഷ്യൽ സ്കെയിലുകളെക്കുറിച്ച് സിസിഎ സംസാരിക്കുന്നു അതേസമയം ദുരന്തം ചെറുതും ചെറുതുമായ സ്കെയിലുകളിൽ കൂടുതൽ സംസാരിക്കുന്നു ഇത് ഇവന്റിനെ സമീപനത്തിലാണ് പക്ഷേ ഇവയൊക്കെ നൽകുന്ന മുൻഗണനകൾ പ്രധാനമായും ബൊട്ടം അപ്പ് സമീപനത്തിലാണ് അതേസമയം മൾട്ടി സ്റ്റേക്ക്ഹോൾഡർ ഏകോപനവും ഉള്ള പൊതു വെല്ലുവിളികൾ ഉദാഹരണത്തിന് സ്കെയിൽ പൊരുത്തക്കേടുകൾ നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും പ്രത്യേക സെറ്റിൽമെൻറ് നിന്നുള്ളതാണ് അവിടെ മഞ്ഞ് മൂടുന്നത് വർഷം തോറും ക്രമേണ കുറയാൻ തുടങ്ങി നേരത്തെ ഇത് 8 മാസത്തെ മഞ്ഞ് മൂടിയിരുന്നു ഇപ്പോൾ ഇത് ആറുമാസമാണ് ഇപ്പോൾ ഇത് ക്രമേണ കുറയുന്നു അതിനാൽ അവയ്ക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ട് ഉദാഹരണത്തിന് കർഷകർ അതെ മഞ്ഞ് കവറേജ് കുറവായതിനാൽ അവർക്ക് ഒരു അധിക വിള ലഭിക്കുമെങ്കിലും മറ്റ് പ്രത്യാഘാതങ്ങളും ഉണ്ടാകും താപനില അതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ആരോഗ്യത്തെയും സമൂഹത്തെയും അവർ ജീവിക്കുന്ന രീതിയെ ബാധിക്കുന്നു അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലുള്ള പവിഴപ്പുറ്റുകളാണ് അത് പ്രതികൂലവും ഗുണപരവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ആഗോള തലത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തുകയും ചെയ്യുന്നില്ല അതിനാൽ ഒരു ഡാറ്റ പവിഴപ്പുറ്റുകളുടെ ആഗോളതലത്തിലുള്ള ആഘാതത്തെക്കുറിച്ചും മറ്റ് ഡാറ്റ സ്നോ കവർ ഇംപാക്റ്റുകളെക്കുറിച്ചും മറ്റ് ഡാറ്റ ഒരു സ്പേഷ്യൽ സ്കെയിലിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ഇവിടെയാണ് ഡിആർആറിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഒരു ഡാറ്റ 2 വ്യത്യസ്ത സ്കെയിലുകളിൽ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് സംസ്കാരത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തസാധ്യത കുറയ്ക്കുന്നതുമായി ഈ സംസ്കാരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ റെജീന മാപുവ ലിമിന്റെ പ്രധാന സംഭാവനകളിലൊന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ വികസനത്തിലെ പരമ്പരാഗത വാസസ്ഥലങ്ങളെക്കുറിച്ച് ഫിലിപ്പീൻസ് സാംസ്കാരിക സ്വത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു കൂടാതെ ഈ തദ്ദേശീയ പരമ്പരാഗത വാസസ്ഥലങ്ങളും അവയുടെ സാംസ്കാരിക സ്വത്വവും വിശകലനം ചെയ്യുന്നതിനായി സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ ഒരു ചട്ടക്കൂട് ഉപയോഗിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ദൈനംദിന പതിവ് ദുർബലമായ സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക നിങ്ങൾ ഫിലിപ്പീൻസ് കാണുന്നതുപോലെ അവിടെ മുകളിൽ പർവതാരോഹക സംസ്കാരമുണ്ട് കൂടാതെ മുഖ്യധാരാ സംസ്കാരമുണ്ട് തഗാലോഗ് മുഖ്യധാരാ സംസ്കാരം കൂടാതെ സമുദ്ര സംസ്കാരം ഉണ്ട് കോരൻ ദ്വീപുകൾ ഫിലിപ്പീൻസുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന 7000 ദ്വീപുകളിൽ 120 ഓളം വംശീയ ഭാഷാ ഗ്രൂപ്പുകളുണ്ട് അവ ദ്വീപസമൂഹത്തിൽ വ്യാപിച്ചുകിടക്കുന്ന പരമ്പരാഗത വാസസ്ഥലങ്ങളിൽ തുടരുന്നു അതിനാൽ ഈ പ്രാദേശിക വാസസ്ഥലങ്ങൾ സാമ്പത്തിക വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി വ്യവസ്ഥകൾക്കുള്ളിലെ വിവിധ ഭൂപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സാംസ്കാരിക തലലത്തിനും ആളുകൾക്കും പ്രത്യേകമായി ജീവിത രീതികൾ അതിനാൽ അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട് അവർക്ക് അവരുടെതായ സംസ്കാരമുണ്ട് അവർക്ക് ഭക്ഷണശീലമുണ്ട് അവർക്ക് വസ്ത്രധാരണരീതികളുണ്ട് അവർക്ക് സാമുദായിക ധാരണയുണ്ട് അതിനാൽ അവൾ ചെയ്തത് വിശകലനത്തിന്റെ ഒരുതരം ആശയപരമായ ചട്ടക്കൂട് വികസിപ്പിച്ചെടുത്തു അതിനാൽ സാംസ്കാരിക സ്വത്വം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഘടനകളെക്കുറിച്ചും വികസന സങ്കൽപ്പങ്ങളെക്കുറിച്ചും അവർ യഥാർത്ഥത്തിൽ നോക്കി മുഖ്യധാരാ സംസ്കാരങ്ങൾ ആൽപൈൻ സംസ്കാരങ്ങൾ തീരദേശ സംസ്കാരങ്ങൾ എങ്ങനെ അവ പ്രതികരിക്കുന്നു എങ്ങനെയുള്ള സംവിധാനങ്ങൾ അവർക്കുള്ളത് പങ്കാളിത്തപരമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞത് ഉദാഹരണത്തിന് ഈ നെല്ല് വിളവെടുപ്പ് സംസ്കാരം ഈ പർവ്വത ജനത ഇഷ്ടപ്പെടുന്ന ഈ നെൽകൃഷി ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമായി കണക്കാക്കുന്നു ഇവിടെ പന്നി പോലും അവർ കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് മാത്രമല്ല അവർ ഈ പന്നികളെ വെച്ച് വലിയ വിരുന്നുകളും നടത്തുന്നത് നിങ്ങൾക്ക് കാണാം കൂടാതെ അവർ അരി ബണ്ടിലുകൾ ഇടുന്നത് കാണാം ഇത് ആചാരപരമായ വിരുന്നിന്റെ പ്രതീകാത്മക പ്രാതിനിധ്യം കാണിക്കുന്നു വാസ്തവത്തിൽ സമൂഹത്തിൽ വ്യത്യസ്ത ശ്രേണികളുണ്ട് അവിടെയാണ് സമുദായത്തിലെ സമ്പന്നരായ അംഗങ്ങൾ ആചാരപരമായ വിരുന്നിന്റെ പാരമ്പര്യം സദംഗ സമൂഹത്തിന് ആവശ്യമായ സമത്വ ഗുണങ്ങളെ ശക്തിപ്പെടുത്തുന്നത് അരി ഉൽപാദന സംസ്കാരം നിലനിർത്താൻ കാരണം ഒരു കുടുംബ വിവാഹത്തിനായി ഇത്രയധികം മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് ദരിദ്രർക്ക് സ്വരൂപിച്ച സ്വത്ത് പുനർവിതരണം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് സമൂഹത്തിന് പങ്കിടാനായി മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനായി ഉത്സാഹത്തോടെ ശേഖരിക്കുക എന്നത് ഒരു കുടുംബത്തിന്റെ പദവിയാണ് ഒരാൾക്ക് സമ്പത്ത് ശേഖരിക്കാനും അരി ഉൽപാദനത്തിനായി അത് പങ്കിടാതിരിക്കാനും വിളവെടുപ്പ് നടത്തുന്നതിന് അധ്വാനവും സമുദായ സഹകരണവും പങ്കിടേണ്ടതുണ്ട് അതിനാൽ ഇവിടെ പരമ്പരാഗത വിരുന്നു പോലും അത് യഥാർത്ഥത്തിൽ ഒരാൾ തന്റെ സ്വത്ത് എങ്ങനെ പങ്കിടുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് അധ്വാനവും സമൂഹത്തിന്റെ സഹകരണവും ലഭിക്കുന്നത് അതിനാൽ അവർ വിളവെടുപ്പിനായി ഒത്തുചേരേണ്ടതാണ് ഇപ്പോൾ അവർ ഈ ആചാരങ്ങൾ നടത്താനും അയൽക്കാരുമായി ബന്ധപ്പെട്ട പ്രാദേശിക അതിർത്തികളെയും അവകാശങ്ങളെയും നിർവചിക്കുന്ന നിരവധി സമാധാന കരാറുകൾ ചർച്ച ചെയ്യുന്നതിനും സദംഗ ഭാഷ ഉപയോഗിക്കുന്നു അതിനാൽ ഈ വിരുന്നുകൾ അയൽവാസികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു അവർ വിവിധ ഓഹരികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു കൂടാതെ ഗോത്രയുദ്ധങ്ങൾക്ക് കാരണമായ ജല അവകാശങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു നെൽകൃഷിക്ക് അത്യാവശ്യമായ ഒരു വിഭവമായതിനാൽ അല്ലെങ്കിൽ മുഴുവൻ ഗോത്രവും ഇല്ലാതെ പട്ടിണി കിടക്കേണ്ടിവരും അതിനാൽ അവർ ഈ ജല അവകാശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ജലം എങ്ങനെ പങ്കിടാം കാരണം കൃഷി പ്രധാന തൊഴിലായി മാറിയപ്പോൾ ജലവിഭവശേഷി നോക്കേണ്ടതുണ്ട് വിതരണം സമൂഹങ്ങൾക്കിടയിൽ ഒരു പ്രധാന കടമയാണ് അതിനാൽ ഈ പരമ്പരാഗത പാറ്റേണുകൾ പോലും പ്രകൃതിവിഭവങ്ങളുടെ വിതരണത്തിനുള്ളിൽ ചില ചർച്ചകൾ രൂപപ്പെടുത്തുന്നു ഞാൻ അർത്ഥമാക്കുന്നത് സമാഹരിച്ച സ്വത്ത് പങ്കിടലാണ് ഒപ്പം സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് റെജീനയുടെ സൃഷ്ടിയുടെ ഒരു ചെറിയ വീഡിയോ കാണിക്കും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഏതുതരം ധാന്യങ്ങൾ അവർ എങ്ങനെ സംഭരിക്കുന്നുവെന്നും മുഴുവൻ ആചാരാനുഷ്ഠാനങ്ങളും സമൂഹത്തിനകത്തും വീണ്ടും കമ്മ്യൂണിറ്റികളിലുടനീളം എങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം പൊതുവായ പങ്കിടൽ സംവിധാനങ്ങളെക്കുറിച്ചും അവർ ഭൂമി പങ്കിടലിനെക്കുറിച്ചും സംസാരിക്കുന്നു മൂപ്പന്മാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നെല്ല് സംസ്കാരം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനന്തരാവകാശ പാറ്റേണുകൾ 9patterns വിശ്വസിക്കുന്നുവെന്നും ഭൂമിയും പ്രദേശവുമായുള്ള ഈ ബന്ധങ്ങളെല്ലാം അവരുടെ ഐഡന്റിറ്റി നൽകുന്ന ജീവിതത്തിന്റെ ഭാഗമായി തുടരുന്നു അതിനാൽ സമൂഹം എങ്ങനെ ജീവിച്ചുവെന്ന് ഓരോ സിസ്റ്റവും അവയെല്ലാം ഈ സമൂഹത്തിന് ഒരു ഐഡന്റിറ്റി സൃഷ്ടിച്ചതും അവ എങ്ങനെ നിലനിർത്താമെന്നതുമായ ഒരു തരം ഘടനയായി മാറുകയാണ് സമാനമായി കൊറോൺ ദ്വീപിൽ യഥാർത്ഥത്തിൽ മത്സ്യബന്ധന വാസസ്ഥലമായ മത്സ്യത്തൊഴിലാളികൾ കൂടാതെ മത്സ്യബന്ധന രീതികൾ മനസിലാക്കുന്നതിലും സ്വഭാവത്തെയോ പരിസ്ഥിതി വ്യവസ്ഥകളെയോ മനസിലാക്കുന്നതിലും അവർക്ക് തദ്ദേശീയമായ അറിവ് എങ്ങനെ സ്വീകരിക്കാം റെജീനയെപ്പോലെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവുന്ന പുണ്യ സ്ഥലങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ മനസിലാക്കുന്നുവെന്നും അവ പ്രജനന ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നും വിവിധ തടാകങ്ങൾ കടൽത്തീരങ്ങൾ പുണ്യ സ്ഥലങ്ങൾ എന്നിവ കാണിക്കുന്ന അതിരുകൾ സമൂഹം നിർവചിച്ചിരിക്കുന്നിടത്ത് ഒരു മാപ്പ് ഉണ്ട് കമ്മ്യൂണിറ്റികൾ ഇത് എങ്ങനെ മനസിലാക്കുന്നുവെന്ന് നടത്തിയ ഒരു തരം സർവേയാണ് കൂടാതെ ചില തദ്ദേശീയ ഐതീഹ്യങ്ങളും അവർ എങ്ങനെ ചില അറിവുകൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുവെന്നതിന് ഉദാഹരണമുണ്ട് ഉദാഹരണത്തിന് പന്യാൻ സ്വദേശികളാരും ഈ പുണ്യ സ്ഥലങ്ങളിലേക്ക് പോകില്ല കാരണം അവർ പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഒരാൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഭീമൻ ഒക്ടോപസ് ബോട്ടിൽ പിടിച്ച് മുക്കുന്നു അതിനാൽ പുണ്യസ്ഥലങ്ങളിൽ ഒരാൾ നിശബ്ദത പാലിക്കുകയും ചിലപ്പോൾ കാലിസിലെന്നപോലെ അവിടെ താമസിക്കാൻ അനുവാദം ചോദിക്കുകയും വേണം പന്യൻ അവിടെ 7 അല്ലെങ്കിൽ 3 വലിയ കൂടാരങ്ങളുള്ള ഒരു വലിയ ഒക്ടോപസ് ഉണ്ട് അതിനാൽ സാധാരണഗതിയിൽ അവർക്ക് ഒരു മിഥ്യാധാരണയുണ്ട് അത് അവരുടെ പൂർവ്വികരിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോകരുത് എന്ന് അവർ പറയുന്നു അതിനാൽ ഒരു സാമുദായിക ധാരണയെന്ന നിലയിൽ അവർ അതിനെ ശരിക്കും ബഹുമാനിക്കുന്നു അങ്ങനെയാണ് നിങ്ങളുടെ ബോട്ട് പിടിച്ച് താഴേക്ക് വലിച്ചെറിയാൻ കഴിയുന്ന ഒരു വലിയ ഒക്ടോപസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് അവർ പറയുന്നത് വാസ്തവത്തിൽ അവർ എപ്പോഴെങ്കിലും ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ മൂപ്പന്മാർ സംസാരിക്കുന്നത് അവൻ ഇവിടെ നിന്നുള്ള ഈ വ്യക്തിയാണ് അവനെ ഉപദ്രവിക്കരുത് ഒരു പ്രാർത്ഥന മൂപ്പന്മാർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു രോഗം സംഭവിക്കും അതിനാൽ തടാകത്തെക്കുറിച്ചും മത്സ്യബന്ധനം മത്സ്യ പ്രജനനം മത്സ്യത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചും ഈ പ്രത്യേക മത്സ്യബന്ധന മൈതാനങ്ങളെ അവർ എങ്ങനെ ബഹുമാനിക്കണമെന്നും ഉള്ള എല്ലാ തരത്തിലുള്ള പാരമ്പര്യങ്ങളും ഇതാണ് ഇതെല്ലാം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കടന്നുപോകുന്ന അദൃശ്യമായ പാരമ്പര്യങ്ങളുടെ ഒരു ഭാഗമാണ് റെജീനയുടെ സൃഷ്ടിയുടെ ഒരു ചെറിയ ചിത്രം വീണ്ടും ഇവിടെ കാണിക്കാം എന്നാൽ ഇവിടെ നിലവിലെ സാഹചര്യങ്ങളിൽ ധാരാളം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ധാരാളം മത്സ്യങ്ങൾ ലഭ്യമാണെന്നും അവർ ഈ സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങിയതായും അവർ വിവിധ നൂതന മത്സ്യബന്ധന രീതികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അവ പരിസ്ഥിതി സൌഹൃദമല്ല പക്ഷേ അവർ ഒരു ഡൈനാമൈറ്റ് പോലും പിടിക്കുന്ന മികച്ച വലകൾ പവിഴപ്പുറ്റുകളുടെ കുത്തൊഴുക്ക് മത്സ്യത്തെ വലയിലേക്ക് കയറ്റാൻ അമിത മത്സ്യബന്ധനവും പരിസ്ഥിതി നശീകരണവും എല്ലാം മത്സ്യങ്ങൾ വസിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അതിനാൽ ഈ നൂതന സാങ്കേതിക വിദ്യകൾ ഈ ദ്വീപുകളിലേക്ക് വന്ന പുതിയ ആളുകൾ അവർ മികച്ച വലകൾ ഉപയോഗിക്കാൻ തുടങ്ങി അതിനാൽ ഓരോ തരത്തിലും ഓരോ വലയിലും അത് എങ്ങനെയുള്ള മത്സ്യത്തെ പിടിക്കുന്നുവെന്നും അതിന് പിടിക്കാമെന്നും വ്യത്യസ്ത അനുപാതമുണ്ട് എന്നാൽ ഇപ്പോൾ അവർ കൂടുതൽ മത്സ്യങ്ങളെ ഉപേക്ഷിക്കുന്നില്ല അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഈ കുടിയേറ്റ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം പാരിസ്ഥിതിക ആശങ്കകൾ സൃഷ്ടിക്കുന്നു കാരണം അവർ വ്യത്യസ്ത സ്ഥലത്ത് വരുമ്പോൾ ഈ സ്ഥലവുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ മത്സ്യം ഇല്ലാതാകുമ്പോൾ അവർ മറ്റൊരു ദ്വീപിലേക്ക് നീങ്ങുന്നു അതിനാലാണ് ഈ ടാഗ്ബാൻവ പുരാണങ്ങൾ നിർഭയരായ കുടിയേറ്റക്കാരന് പ്രസക്തിയില്ല വാസ്തവത്തിൽ ഈ കുടിയേറ്റ മത്സ്യത്തൊഴിലാളികൾ ചിത്രത്തിലേക്ക് വരുന്നതോടെ ഈ ടാഗ്ബാൻവ പോലും പുതിയ മത്സ്യബന്ധന വിദ്യകൾ പഠിച്ചു അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരില്ലാത്ത അങ്ങനെയാണ് അത് ഒരാളുടെ സ്വാധീനം ചെലുത്തുന്നത് സാംസ്കാരിക വശങ്ങൾ മനസ്സിലാക്കാത്തതും വ്യത്യസ്ത സംസ്കാരങ്ങൾ അവരുടെ പരിസ്ഥിതി വ്യവസ്ഥകളെ പരിസ്ഥിതിയെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നതും ഡൈനാമൈറ്റുകൾ ഉപയോഗിച്ചതു മൂലം പവിഴപ്പുറ്റുകൾക്ക് എങ്ങനെ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ജീവനുള്ള മത്സ്യങ്ങളെ കൊണ്ടുവരാൻ ഉപയോഗിച്ച സോഡിയം സയനൈഡ് വിഷം ഉപയോഗിച്ചതും ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഒരാൾക്ക് അവ കാണാൻ കഴിയും പവിഴപ്പുറ്റുകളിൽ ഇത് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഒരു പ്രത്യേകതരം പവിഴപ്പുറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അത് സമുദ്രവ്യവസ്ഥയെ ബാധിക്കുന്നുവെന്നും കാണാം അക്വാ സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ സമുദ്രവ്യവസ്ഥയെ ബാധിക്കുന്നു ഇത് മനുഷ്യവ്യവസ്ഥയെയും ബാധിക്കുന്നു അതിനാൽ ഒരു ശൃംഖല പ്രക്രിയയുണ്ട് വാസ്തവത്തിൽ പക്ഷികളുടെ കൂടു ഉൽപാദനത്തിൽ ടൂറിസത്തിന്റെ സ്വാധീനം അനധികൃത മത്സ്യബന്ധന തന്ത്രങ്ങൾ മൂലമുണ്ടാകുന്ന മത്സ്യബന്ധനം കുറയുന്നു ദീർഘവീക്ഷണം ഇല്ലാത്ത ആളുകളുടെ അശ്രദ്ധമായ മനോഭാവം ടാഗ്ബാൻവ ജനതയുടെ ഉപജീവനമാർഗ്ഗം നൽകുന്ന കരയെയും കടലിനെയും സംരക്ഷിക്കുന്നതിൽ ചില രസകരമായ സത്യങ്ങളാണ് ഇവ പ്രാദേശിക സംസ്കാരങ്ങൾ ആവാസവ്യവസ്ഥയെയും പരിസ്ഥിതിയെയും എങ്ങനെ മനസ്സിലാക്കുന്നു ഈ കെട്ടുകഥകളും പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കുന്നു പക്ഷേ വിദേശ കടന്നുകയറ്റം വരുമ്പോൾ അവ എങ്ങനെ സ്വാധീനിക്കുന്നു ഒരാൾ മറ്റ് സംസ്കാരങ്ങളും താൽപ്പര്യവും അറിവും മനസ്സിലാക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സ്പേഷ്യൽ സ്കെയിൽ വെല്ലുവിളികൾ ഉണ്ട് അത് വളരെ വലിയ സ്കെയിലുകൾ വലിയ സ്കെയിലുകൾ വരെ സംസാരിക്കുന്നു അതേസമയം ദുരന്തം ബാധിച്ച പ്രദേശങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നു അതിനാൽ അവയെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ബീഹാറിലെവിടെയെങ്കിലും ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കാരണം അതേ സ്ഥലത്തുനിന്നുള്ള ആഘാതം ഉണ്ടാകാം അത് മൂലകാരണമാകാൻ കാരണമായിരിക്കാം ടിബറ്റിലെ ബ്രഹ്മപുത്രയിൽ ചൈന ഒരു ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത് സ്വാധീനം ചെലുത്തിയേക്കാം അതുകൊണ്ടാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ താൽപ്പര്യത്തിനും മനസ്സിനും കീഴിലുള്ളത് അതിനാൽ അതിനെ അഭിസംബോധന ചെയ്യുന്നതിലും ഇത് ഒരു വെല്ലുവിളിയാണ് അതിനാൽ തിരശ്ചീന സ്കെയിലുകളും ലംബ സ്കെയിലുകളും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട് അവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉറവിടങ്ങൾ മറ്റ് പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും സ്ഥിതിചെയ്യുന്നു അത് ബാധിക്കുന്ന രാജ്യങ്ങൾ കാണിക്കുന്നു അതിനാൽ തന്നെ വിശാലമായ ഒരു സ്പേഷ്യൽ സ്കെയിലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ അറിവും വിശകലനവും പ്രാദേശിക തലത്തിൽ ഉചിതമായ പരിഗണനയ്ക്കായി പലപ്പോഴും പ്രതിഫലിപ്പിക്കപ്പെടുന്നില്ല ഇത് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിടവാണ് കൂടാതെ താൽക്കാലികവും പ്രവർത്തനപരവുമായ വെല്ലുവിളികൾ താൽക്കാലികവും പ്രവർത്തനപരവുമായ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു എൻജിഒ അല്ലെങ്കിൽ സർക്കാർ മേഖല അല്ലെങ്കിൽ അർദ്ധസർക്കാർ എന്നിവയാണോ എന്നത് വിവിധ ഏജൻസികളുടെ പങ്കിനെക്കുറിച്ചാണ് ആരാണ് വരുന്നത് പ്രത്യേകിച്ചും ദുരന്ത നിവാരണത്തിനായി വരുന്ന എൻജിഒകൾ അവർ ഇവിടെ ഒരു കരാറിലാണ് ടാർഗെറ്റുചെയ്ത ചില ജോലികൾ ചെയ്യാൻ അവർ ഇവിടെയുണ്ട് അത് ഒരു ഉപജീവനം ആണോ അത് ഒരു അഭയം ആണോ അവർ അത് പൂർത്തിയാക്കുന്നു അവർ മുന്നോട്ട് പോകുന്നു അവരുടെ വിസകളും കാലഹരണപ്പെടുന്നു അവർ മുന്നോട്ട് നീങ്ങുന്നു ദീർഘ കാലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ ആരാണ് ഇത് പരിപാലിക്കുക ഈ സ്ഥലം എങ്ങനെ കൂടുതൽ പരിഷ്കരിക്കപ്പെടും ശരിയായ വിലയിരുത്തൽ ഇല്ലാത്തതുപോലെ ആളുകൾ എങ്ങനെ ക്രമീകരിക്കപ്പെടും എന്നതിന്റെ ദീർഘകാല പ്രതിബദ്ധത അവർക്കില്ല മന്ത്രാലയം അവർ എത്ര വീടുകൾ നൽകിയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു പക്ഷേ അവ എങ്ങനെ പാർപ്പിച്ചു എന്നതിനെക്കുറിച്ചല്ല ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് സംഭവിച്ച താൽക്കാലിക മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു മുഖ്യധാരാ വികസന നടപടിക്രമങ്ങളാക്കുന്നത് എങ്ങനെയെന്ന് ഉദാഹരണത്തിന് ലത്തൂരിലും ഗുജറാത്തിലും ചില വീടുകൾ ഇപ്പോഴും ശൂന്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാനദണ്ഡങ്ങളിൽ അറിവ് പൊരുത്തക്കേടുകൾ ഉള്ളിടത്ത് 80 കളിൽ ചർച്ച ചെയ്തപ്പോഴാണ് 80 മുതൽ 2002 വരെയുള്ള ആദ്യ യുഗം അതിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഹരിതഗൃഹ വാതക ഉദ്വമനം ശാസ്ത്ര സമൂഹത്തിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നിടത്ത് അത് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് 2000 മുതൽ രണ്ടാം യുഗത്തിൽ ഇത് അന്താരാഷ്ട്ര അജണ്ടയാണ് കാണുന്നത് മാത്രമല്ല സാമൂഹിക ശാസ്ത്രജ്ഞരും വികസന പ്രവർത്തകരും രണ്ടാം യുഗത്തിൽ അവരുടെ സഹകരണം വർദ്ധിപ്പിച്ച ചിത്രത്തിലേക്ക് സാമൂഹിക മാനങ്ങൾ വരുന്നു മൂന്നാം യുഗത്തിൽ ഇത് മറ്റ് രാജ്യങ്ങളും മറ്റ് പ്രദേശങ്ങളും അനുഭവിച്ചതായി നിങ്ങൾക്കറിയാം അതിനാൽ ഇത് സമീപഭാവിയിൽ ആഗോള നീതിയുടെ ഒരു ചോദ്യമായിത്തീർന്നിരിക്കുന്നു അവിടെയാണ് മൂന്നാം യുഗത്തിൽ നിയമപരമായ മാനങ്ങൾ വന്നത് ഇവിടെയാണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രവർത്തനം നിർണ്ണയിക്കുന്ന ചില നിയമനിർമ്മാണ സാംസ്കാരിക പെരുമാറ്റ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അനൌപചാരിക തീരദേശ വാസസ്ഥലങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നിയമനിർമ്മാണ മാനദണ്ഡങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടു ഉദാഹരണത്തിന് 1991 ൽ രൂപവത്കരിച്ച തീരദേശ നിയന്ത്രണ മേഖല സുനാമി ഉണ്ടാകുന്നതുവരെ 19 തവണ പരിഷ്കരിച്ചു എന്നാൽ പിന്നീട് അവ നടപ്പാക്കപ്പെട്ടില്ല വിവിധ സ്കെയിലുകൾ വ്യത്യസ്ത ഡാറ്റ സെറ്റുകൾ വ്യത്യസ്ത കാലാവസ്ഥ റിസ്ക് ശാസ്ത്രജ്ഞ പരിശീലകർ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറിവ് പൊരുത്തപ്പെടുന്നില്ല അവ വിവിധ തലത്തിലുള്ള സ്ഥാപനങ്ങൾക്കിടയിൽ സുതാര്യമായ ആശയവിനിമയവും സഹകരണവും സംയുക്ത പ്രോഗ്രാമിംഗും കൊണ്ടുവരില്ല ഇന്സ്ടിട്യൂഷൻസും ഏജൻസികളും അതിനാൽ മൈക്രോ ലെവൽ ഡാറ്റാ സെറ്റുകളെ അറിയിക്കാൻ ഈ മാക്രോ ലെവൽ നോളജ് എങ്ങനെ ഉപയോഗിക്കാമെന്ന ഒരു പ്രധാന ചോദ്യത്തിലേക്ക് ഇതെല്ലാം നയിക്കുന്നു ആരാണ് ഇത് കണക്കിലെടുക്കേണ്ടത് സിസിഎയുടെയും ഏത് വിധത്തിൽ ആവശ്യമാണ് ചുരുക്കത്തിൽ മുഴുവൻ വശങ്ങളും നോക്കുമ്പോൾ വ്യത്യാസങ്ങളും വെല്ലുവിളികളും നമുക്ക് ദുരന്തസാധ്യത കുറയ്ക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതും കാണാം കാരണം ഇത് സ്കെയിൽ പൊരുത്തക്കേടുകൾ പറയുന്ന അഡാപ്റ്റേഷൻ തന്ത്രത്തെ ലക്ഷ്യം വച്ചുള്ളതാണ് കാരണം ഇത് ദുരന്ത സംഭവത്തെ ലക്ഷ്യം വച്ചുള്ളതാണ് ഇത് ഒരു ദീർഘകാല പ്രത്യാഘാതമാണ് ഒരു വരൾച്ച ഒരു മാസത്തെ കാര്യം മാത്രമല്ല അത് വർഷങ്ങളിൽ നിന്നോ ഒന്നിച്ചോ വരാം അതേസമയം വിവിധ പ്രദേശങ്ങൾക്കും ബന്ധപ്പെട്ട സ്പേഷ്യൽ സ്കെയിലുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇത് ആഗോളതലത്തിൽ ചിലപ്പോൾ ഒരു ഭൂഖണ്ഡാന്തര പ്രത്യാഘാതങ്ങളാണ് താൽക്കാലികവും പ്രവർത്തനപരവുമായ വെല്ലുവിളികൾ കാരണം ഇത് ഹ്രസ്വവും ഇടത്തരവുമായുള്ളതും കൂടുതലും ഇവന്റുമായി ബന്ധപ്പെട്ടതുമാണ് ഇതിന് കൂടുതൽ പ്രതിരോധവും ദീർഘകാല അനുരൂപീകരണ തന്ത്രങ്ങളും ഉണ്ട് ഇവിടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏജൻസികളെ അവതരിപ്പിക്കുന്നു ഒപ്പം വർക്ക് റോളുകളുടെയും ഫണ്ടിംഗിന്റെയും വ്യാപ്തി എന്താണെന്നും കാരണം ഒടുവിൽ ധനസഹായം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാനദണ്ഡങ്ങളുമായി പൊരുത്തക്കേടുകൾ നമുക്ക് നിയമനിർമ്മാണ മാനദണ്ഡങ്ങൾ നഗര ആസൂത്രണ മാനദണ്ഡങ്ങൾ തീരദേശ ചട്ടങ്ങൾ എന്നിവ ഉള്ളപ്പോൾ അവ എങ്ങനെ പ്രവേശിക്കുന്നു എന്നത് പരസ്പരം ബന്ധപ്പെടുന്നില്ല അത് ഒരു വശമാണ് വിജ്ഞാന ഡാറ്റാ സെറ്റുകളുടെയും പ്രയോഗിച്ച ജോലിയുടെയും വ്യത്യസ്ത തരങ്ങളും സ്കെയിലുകളും പറയുമ്പോൾ അറിവ് പൊരുത്തപ്പെടുന്നില്ല അതിനാൽ ഈ ലെയ്ക്കും വാങിനുമായി വിളിക്കുന്ന കൂടുതൽ വ്യക്തമായ ചട്ടക്കൂടുകളുമായി വരുന്നു പ്രകൃതി ദുരന്തസാധ്യതയ്ക്ക് അനുയോജ്യമായത് എന്തുകൊണ്ട് ദുരന്തസാധ്യതയുമായി പൊരുത്തപ്പെടൽ എന്താണ് എന്തിനുമായി പൊരുത്തപ്പെടണം ആരാണ് പൊരുത്തപ്പെടേണ്ടത് ആരാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെ പൊരുത്തപ്പെടാം പൊരുത്തപ്പെടുത്തലിന്റെ ഫലപ്രാപ്തിയെ സഹായിക്കുന്നതിന് സാധ്യമായ തത്വങ്ങളോ മാനദണ്ഡങ്ങളോ എന്തൊക്കെയാണ് അതിനാൽ ഈ 6w ചട്ടക്കൂടിന്റെ കാണേണ്ടതുണ്ട് അവയെല്ലാം എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നു നോക്കാം മൈക്രോ ലെവൽ വിവരങ്ങൾ എങ്ങനെ അറിയിക്കും അതിനാൽ എന്റെ നിലവിലുള്ള പഠനത്തിൽ ഞാൻ ഈ ചട്ടക്കൂട് വികസിപ്പിച്ചെടുത്തത് ഇവിടെയാണ് സ്പേഷ്യൽ അളവുള്ളതും ഇവയെ ബാധിക്കുന്നതിലെ ദുർബലതയും ഉള്ളത് കൂടാതെ ദുരന്തത്തിന് മുമ്പുള്ള പൊരുത്തപ്പെടുത്തൽ പ്രക്രിയയും ഉണ്ട് ദുരന്താനന്തര ദുരന്തത്തിലും ഭാവിയിൽ ഉണ്ടാകുന്ന അപകടസാധ്യതയിലും ഹ്രസ്വകാല ഇടത്തരം ഒറ്റ ഒന്നിലധികം ദുരന്തങ്ങൾ ഇതിന് സാമൂഹിക പഠനത്തിലൂടെ ഒരു ദീർഘകാല അനുരൂപമുണ്ട് പ്രകൃതിയും സംസ്കാരവും എങ്ങനെ ഒത്തുചേരുമെന്ന് ഇവിടെ കാണാം അഡാപ്റ്റീവ് ബിൽറ്റ് എൻവയോൺമെൻറുകൾ എങ്ങനെ തിരഞ്ഞെടുപ്പുകൾ തുറക്കുന്നു ഭൂതകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്നു കൂടാതെ പ്രകൃതിയിലെ മനുഷ്യരെ പുനക്രമീകരിക്കാൻ കഴിയുന്നതെങ്ങനെ എന്നതിനെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു ഇതിനായി വിവിധ ഏജൻസികൾ തമ്മിലുള്ള സഹകരണ ഏകോപനം രാഷ്ട്രീയ സാങ്കേതിക പാരിസ്ഥിതിക വിദ്യാഭ്യാസ പങ്കാളിത്തവും ആശയവിനിമയവും വിവിധ വിഭാഗങ്ങളിൽ ദേശീയ തലത്തിലുള്ള ആഗോള പങ്കാളികൾ അതിനാൽ ഈ കാര്യങ്ങളെല്ലാം വരേണ്ടതുണ്ട് ഇത് ഞങ്ങൾ പ്രവർത്തിച്ച സമഗ്രമായ ഒരു ചട്ടക്കൂടാണ് നമ്മൾ ഒരു സംയോജിത മൾട്ടി ഡൈമൻഷണൽ ഫ്രെയിംവർക്കിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്തതെങ്ങനെ വിവിധ ദുരന്ത വീണ്ടെടുക്കൽ പ്രക്രിയയിൽ സ്ഥല നിർമ്മാണ പ്രക്രിയയിൽ അതിന്റെ പരിസ്ഥിതി വ്യവസ്ഥകളും സേവനങ്ങളുമുള്ള പ്രകൃതി പരിസ്ഥിതി എങ്ങനെ സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതേസമയം വ്യത്യസ്ത പുനർനിർമ്മാണ പ്രക്രിയകൾ ഗുണഭോക്താക്കളുടെ ഭൂതകാലത്തെയും ഭാവിയിലെയും ആവശ്യങ്ങളെയും അഭിലാഷങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള വെല്ലുവിളികളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നും അതിനാൽ കുറച്ച് റഫറൻസുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഒരാൾക്ക് അതിലൂടെ പോകാൻ കഴിയും